സെൽ കൽച്ചറിന്റെ ലെക്ചർ പരമ്പരയിലേക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് മൈലൈനേഷനെ കുറിച് പറഞ്ഞുകൊണ്ടാരുന്നു അതിനാൽ ഇന്ന് നമ്മൾ ആദ്യം പെരിഫെറൽ സിസ്റ്റത്തിലും സെൻട്രൽ സിസ്റ്റത്തിലും എങ്ങനെയാണ് മൈലിനേഷൻ നടക്കുന്നത് എന്നതിനെ കുറിച്ചും മൈലിനേഷന്റെ വ്യത്യസ്ത പാറ്റേണുകളെ കുറിച്ചും സംസാരികാം അതിനാൽ നിങ്ങൾ പെരിഫെറൽ ന്യൂറോണ്സ് ആണ് കൽച്ചർ ചെയ്യുന്നതെങ്കിൽ സെൻട്രൽ നേർവസ് സിസ്റ്റത്തില്ലേ ന്യൂറോണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ മറ്റൊരു മാതൃക പിന്തുടരണം നമ്മൾ ഇപ്പോൾ ആറാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ലെക്ചറ്റിലാണ് W6 L2 പെരിഫെറൽ ന്യൂറോണിനെ കുറിച് സംസാരിക്കുമ്പോൾ ഈ ന്യൂറോണുകൾ ശരീരത്ത് ഉണ്ടാകുമ്പോൾ മൈലിനഷൻ സംഭവിക്കുന്നത് എങ്ങനെയെന്നാൽ ഷ്വാൻ സെല്ലുകൾ ആക്സോണിലും അതുപോലെ തന്നെ ഡെൻഡ്രൈറ്റിലും വന്നുചേരും കാരണം ഇവിടെയും മൈലിനഷൻ കാണാം അതിനാൽ മൈലൈനേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഷ്വാൻ സെല്ലുകൾ സെൽ ബോഡിയിലോ പ്രക്രിയകളിലോ എത്തുന്ന ഒരു തരം ഗ്ലിയൽ സെല്ലുകളാണ് ഇപ്പൊ ഇവിടെ എത്തിയ ശേഷം ഇവർ വിഭജിക്കും അതായത് ഇതുപോലെ ഇങ്ങനെ വിഭജിക്കുന്നതിലൂടെ ഈ സെല്ലുകൾ ആക്സോണിന് താഴെയായി പോയി അതിനെ വളയാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് ഈ സെല്ലുകളെല്ലാം ആദ്യം ഇരിക്കുന്ന ആക്സൺ ഇത് ആണെങ്കിൽ ആദ്യം ഈ സെല്ലുകൾ വിഭജിക്കും അവയിൽ ചിലത് താഴേക്ക് പോയി പതുക്കെ ഇതുപോലെ മേലോട്ട് വരുന്നു ഒരു പിടിയുടെ ചുറ്റും ഒട്ടിച്ചു വെക്കുന്നതുപോലെ ഇനി എന്താണ് സംഭവിക്കുന്നതെന്നാൽ ഇതുപോലൊരു കവർ രൂപപ്പെടുത്തിയ ഓരോ സെല്ലുകളും MBP അല്ലെങ്കിൽ മൈലിൻ ബേസിക് പ്രോട്ടീൻ എന്ന് വിളിക്കുന്ന ഒരു മൈലിൻ അടിസ്ഥാന പ്രോട്ടീൻ സ്രവിക്കാൻ തുടങ്ങുന്നു ഈ സെല്ലുകൾ സ്രവിക്കുന്ന ഈ മൈലിൻ പ്രോട്ടീനാണ് അവയ്ക്ക് ചുറ്റുമുള്ള മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നത് ഇവിടെ മിക്ക സെല്ലുകൾക്കും അവരുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗം നഷ്ടപ്പെടും അതിനാൽ ഈ സെല്ലുകളുടെ വിധി ഇതുപോലെയാണ് തുടക്കത്തിൽ അവർ ഇങ്ങനെയാണ് പിന്നീട് അവർ ഇങ്ങനെയാകും ഇവിടെ സെല്ലുകളുടെ മെമ്പറൈൻ ബൌണ്ടറികൾ ലയിച് മൊത്തത്തിൽ ഒരു ഷീറ്റ് രൂപത്തിലുള്ള ഒരു ഘടനയായി ഇവ മാറുന്നു അതിനാലാണ് ഇവയെ മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത് അതായത് മൈലിൻ അടിസ്ഥാനമായ പ്രോട്ടീനെ സ്രെവിക്കുന്ന ആക്സൊണിൽ ഉള്ള ഷീത്ത് പോലെത്തെ ആങ്കറുകൾ ഇതിലുടെ ഞാൻ നിങ്ങൾക്ക് ബയോളജിയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതന്നിരിക്കുന്നു ഇനി ഞാൻ പറയുന്നു നിങ്ങൾക്ക് പെരിഫെറൽ ന്യൂറോൺ കൾച്ചർ ഉണ്ടാകണമെന്ന് എങ്കിൽ നിങ്ങൾ എങ്ങനെയാവും ചെയുക എന്ന് ആലോചിച്ചു നോക്കു ഇപ്പൊ ഞാൻ നിങ്ങൾക്കു 2 കേസ് പഠനങ്ങൾ നൽകാം എന്നാൽ അഡൽറ്റ് ഹിപ്പോകാമ്പൽ ഡിസോസിയേറ്റ് സെല്ലുകളിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് മറക്കാതിരിക്കുക പക്ഷെ അതിലേക് കടക്കുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങളിലേക് നമ്മൾ പോകുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെൽ കൾച്ചർ മോഡലുകൾ വളരെ പ്രെധാനപെട്ടതെന്ന് ചിന്തിച്ചുകാണും എന്ന് ഞാൻ പ്രേതീഷിക്കുന്നു കുറച് കാലം ഞങ്ങളെ ബാധിച്ച ഒരു പ്രേശ്നമാണിത് ഇൻ വിട്രോ കൽച്ചറിൽ പെരിഫെറൽ ന്യൂറോണിന്റെ മൈലിനേഷൻ ഷീതുക്കൾ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പുതിയ വിദ്യക്ക് തുടക്കമിട്ട എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തുമായി പ്രെവർത്തിക്കുവാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ പേര് ജോൺ ഓവൻ സാംസെ എന്നാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് സെല്ലുലാർ ഫ്ലോറിഡയിലെ മാന്യന്മാരിൽ ഒരാളായിരുന്നു ഞാൻ അവിടെ അദ്ദേഹടോടൊപ്പം അദ്ദേഹത്തിന്റെ തീസിസ് പ്രേശ്നങ്ങളിലാരുന്നു പ്രെവർത്തിചിരുന്നത് ഈ പ്രേശ്നവും അദ്ദേഹത്തിന്റെ തീസിസ് പ്രേശ്നങ്ങളിൽ ഒന്നായി അദ്ദേഹം പരിഹരിചിരുന്നു അതിനാൽ എങ്ങനെയാണ് അദ്ദേഹം ഇത്തോരു ഡിഷിൽ ചെയ്തത് ഇത് എങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് എന്നതിന്റെ തത്സമയ അനുഭവം ഞാൻ പങ്കുവെക്കാം ജോൺ ഈ പ്രശ്നത്തെ സമീപിച്ച രീതി വളരെ രസകരമായിരുന്നു ഞാൻ പ്രധാന കോഴ്സിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എന്നാൽ കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുമായി തിരികെ വരുന്നതാരികും അതിനാൽ ഈ കോഴ്സിൻറ് ട്രാക്ക് നഷ്ടപെടുത്താതിരിക്കുകകാരണം അഡൽറ്റ് ന്യൂറോൻസിന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രേശ്നങ്ങളുടെ വെല്ലുവിളികളെ നേരിടുന്നതിന് മുൻപായി ഇതുപോലുള്ള പെരിഫെറൽ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടതായി വരും പെത്യേകിച്ചും ഒരു കൾച്ചർ ഡിഷിലൂടെ എങ്ങനെയാണു മരുന്ന് കണ്ടെത്തലിന്റെ സാമ്പത്തിക ഭാരം കുറക്കുക എന്ന് അതിനാൽ ഇപ്പോൾ ഈ പ്രെശ്നം ടാർഗറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നതിലേക്ക് തിരികെ വരം അതിനാൽ ആദ്യതെതും പ്രെധാനപെട്ടതുമായ ആശയം എന്തെന്നാൽ ഇവിടെ ആദ്യം ഈ പ്രേശ്നത്തെ ഒന്ന് മുറിക്കുക ആദ്യതെത് പെരിഫെറൽ ന്യൂറോൺ ഉപയോഗിച്ച് ഒരു ഡിഷിൽ മൈലിനേഷൻ നേടുന്നു എന്നാണ് രണ്ടാമതായി എന്തുകൊണ്ടാണ് മൈലിനേഷൻ നശിച്ചുപോകുന്ന സ്ക്ലിറോസിസ് എന്ന മൈയ്ലിനേഷൻ ഡിസോടർനെ പഠിക്കുവാനായി ഇൻ വിട്രോ ടെസ്റ്റ് ബെഡ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇതാണ് നിങ്ങളുടെ എന്ത് ഇതാണ് നിങ്ങളുടെ എന്തുകൊണ്ട് ഇനിയാണ് എങ്ങനെ വരുന്നത് അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇത് നേടുന്നതെന്ന് അതിനാൽ ഇതാവും നമ്മൾ അടുത്ത പതിനഞ്ചു മിനിറ്റോളം സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ടെസ്റ്റ് ബെഡ് ഉണ്ടാകാം എന്ന് എന്നാൽ ഇതിലേക്ക് വരുന്നതിന് മുൻപ് ആവശ്യങ്ങളും മുൻവ്യവസ്ഥകളും എന്തോക്കെയാണെന്നു മനസിലാകാം അതിനാൽ നമ്മൾ പെരിഫെറൽ ന്യൂറോണിൽ പരീക്ഷിക്കാൻ പോകുന്നു പെരിഫറൽ ന്യൂറോണുകൾ ലഭിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഉറവിടം ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോണിക് ന്യൂറോണുകളാണ് ഇവ സെന്സറി ന്യൂറോൺ ആണ് ഇത് നിങ്ങൾക്ക് ആവശ്യമായ മുൻവ്യവസ്ഥകളിലൊന്നാണ് എന്നാൽ ഈ ഡോർസൽ റൂട്ട് എവിടെനിന്നും കിട്ടും നമ്മൾ വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന വളരെ എളുപ്പമുള്ള മോഡൽ ആയ എലിയിൽ നിന്ന് തന്നെ ഇത് ലഭ്യമാകും പ്രത്യേകിച്ചും ഭ്രൂണ എലിയിൽനിന്നും എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതായത് E14 സാധാരണയായി എലികൾക്ക് 20 മുതൽ 23 ദിവസത്തെ ഗർഭം ഉണ്ട് അതിനാൽ ഇവയിൽ ഒന്നിൽ നിന്നും നിങ്ങൾക്ക് E 14 ഡോർസൽ റൂട്ട് ഗാംഗ്ലിഓൺ എടുകാം നമ്മൾ ഇത് ആദ്യം അടൽറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നില്ല കാരണം ഭ്രൂണ ന്യൂറോൺ E 14 ൽ പരീക്ഷിച്ചുനോക്കുന്നതാണ് ആദ്യത്തെ പടി അതിനാൽ E14 ൽ നിന്നും ഇവയെ വേർതിരിചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഒരു ഡിസെക്ഷൻ വെല്ലുവിളിയാരിക്കും ഡിസെക്ഷൻ വെല്ലുവിളി എന്നാൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വളരെ ചെറിയ ഒരു ഭ്രൂണത്തെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നാൽ സുഷുമ്നാ നാഡിയെ വേർതിരിച്ചെടുക്കുക ഇത് ഒരു മൈക്രോ സർജറി ആയിരിക്കണം ഒപ്പം സുഷുമ്നാ നാഡിക്ക് ചുറ്റുമായി ഇരിക്കുന്ന ഈ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയൻ വളരെ വളരെ ശ്രദ്ധാപൂർവ്വം സർജിക്കൽ അക്യൂമെൻ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം വേർതിരിച്ചെടുക്കുക ഇവ വ്യക്തിഗത ഗാംഗ്ലിയനുകളാണ് ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ഹൈബർനേറ്റ് പോലെയുള്ള ഏതെങ്കിലും കളക്ഷൻ ബഫർ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഈ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയൺസും ഇപ്പൊ ഉണ്ട് DRGs ഇപ്പോൾ ഈ DRG കളെ എൻസൈമാറ്റിക്കായി വിച്ഛേദിക്കപ്പെടുത്തെണ്ടതുണ്ട് ഇതിനായി നിങ്ങൾക്ക് ട്രിപ്സിനെ ഉപയോഗികാം സ്വയമേവ നടത്താൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇങ്ങനെ സ്വമേധയാ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം മിക്ക എൻസൈമാറ്റിക് ഡിസോസിയേഷനും ട്രിപ്സിൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ നിങ്ങൾക് പപൈനും ഉപയോഗികാം പക്ഷേ ട്രിപ്സിൻ പരീക്ഷിക്കുന്നത് മൂല്യവത്താണ് നിങ്ങൾ ട്രിപ്സിൻ ഉപയോഗിക്കുകയാണെങ്കിൽ 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ ട്രിപ്സിൻ ഇൻഹിബിറ്റർ ഉപയോഗിച്ച് ട്രിപ്സിൻന്റെ പ്രതിപ്രവർത്തനം നിർത്തണം കാരണം ട്രിപ്സിൻ സെല്ലുകൾക് കേടുവരുത്തും അതിനാൽ ആവശ്യത്തിനു റിയാക്ഷൻ നടന്നു എന്ന് ഉറപ്പുവരുത്തുക ഗാംഗ്ലിയോൺസിനെ കുറിച് സംസാരിക്കുമ്പോൾ ഗാംഗ്ലിയോൺസിൽ ഇതുപോലെ ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ ഇരിപ്പുണ്ടാവും അതിനാൽ ട്രിപ്സിൻ ഇവിടെ ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് ഇതുപോലെയുള്ള സെല്ലുകൽക് ഇടയിലൂടെ കേറി അവയെ എല്ലാം വേർതിരിക്കാൻ നോക്കുന്നു എന്നാണ് ഇതിലുടെ നിങ്ങൾക്ക് സിംഗിൾ സെൽ സസ്പെന്ഷൻ ലഭിക്കും അതിനാൽ ഇതാണ് നിങ്ങളുടെ E14ൽ ഉണ്ടാരുന്ന DRGന്യൂറോണുകൾ കാരണം ഇവിടുന്നു കൂടുതൽ മുന്നോട്ട് പോയാൽ ഷ്വാൻ സെല്ലുകളുടെ എണ്ണം വർധിക്കും അതിനാൽ ഇവിടെ ഒരു രസകരമായ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് DRG യുടെ ആദ്യ സെല്ലുകൾ സെൻസറി ന്യൂറോണുകളാണ് തുടർന്ന് ഷ്വാർ സെല്ലുകൾ ഉണ്ടാവുന്നു ശേഷം ഇവ ഒരു വ്രപ്പിംഗ് ഉണ്ടാകുന്നു ഈ റാപ്പിംഗും ഷ്വാർ സെല്ലുകളുടെ വിഭജനവും സമാന്തരമായി സംഭവിക്കുനത്തല്ല ആദ്യം ഇവർ ലക്ഷ്യത്തിലെത്തുകയും ശേഷം ഒരേ സമയം ഈ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതുപോലെ ഒരൊറ്റ സസ്പെൻഷനിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ മുൻവ്യവസ്ഥ തയ്യാറായിക്കഴിഞ്ഞു അതായത് ഇപ്പോൾ നിങ്ങളുടെ പക്കൽ പെരിഫറൽ ന്യൂറോൺ ഉണ്ട് പക്ഷേ നിങ്ങൾക് ഇപ്പൊ മറ്റൊരു കാര്യം നേടേണ്ടതുണ്ട് ഇത് ആദ്യത്തെ മുൻവ്യവസ്ഥയാണെങ്കിൽ രണ്ടാമത്തെ മുൻവ്യവസ്ഥയുണ്ട് രണ്ടാമത്തെ മുൻവ്യവസ്ഥ എന്തെന്നാൽ നിങ്ങൾക്ക് ഷ്വാൻ സെല്ലുകൾ ആവശ്യമായി വരും എന്നതാണ് കാരണം നിങ്ങൾക് ഇത് അവിടെ ബന്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഇവിടെ പെരിഫെറൽ ആണ് ചെയുന്നത് അതിനാൽ ഇത് ചെയ്യുവാനായി നിങ്ങൾക്ക് ഷ്വാർ സെല്ലുകളുടെ ഒരു ഉറവിടം ആവശ്യമാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞിരുന്നു E14 ഉപയോഗിക്കുന്ന സമയത്ത് ഷ്വാർ സെല്ലുകൾ ശരിയായി വളർന്നിട്ടുണ്ടാവില്ല എന്ന് അതിനാൽ ഷ്വാൻ സെല്ലുകൾ ലഭിക്കുവാൻ ഉറവിട മൃഗ സ്രോതസ്സ് ഒരു പക്വതയുള്ള മൃഗത്തിന്റേത് ആയിരിക്കണം എന്നാണ് ഇതിനർത്ഥം അതിനാൽ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് മുതിർന്നവരിൽ നിന്ന് ഷ്വാൻ സെല്ലുകൾ എടുകാം അത് ശെരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് p 1 അല്ലെങ്കിൽ p 4 എലിയുടെ ഷ്വാൻ സെല്ലുകൾ എടുകാം എന്താണ്p1 ണും p4റും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഗർഭം 23 ദിവസം വരെ പോകുമെന്ന് E23 അതിനാൽ ഇവർ ജനിച്ചയുടൻ ഇത് p 0 ആണ് ഈ ദിവസം ജനിക്കുന്നതും p 1 p 2 പ്രസവശേഷം ഉള്ളവായുമാണ് അതിനാൽ പ്രേസവശേഷമുള്ള p1 മുതൽ p2 വരെ അല്ലെങ്കിൽ p4 വരെ ഉള്ള ആ ചെറിയ എലികളാണ് ഷ്വാൻ സെല്ലുകളുടെ ഉറവിടമായി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം എങ്ങനെ അറിയാമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇതിൽ കഴിഞ്ഞ 100 അഥവാ 50 വർഷങ്ങളായി ആളുകൾ പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് ഒരു ദീർഘദൂര യാത്രയാണ് അതിനാൽ ഇന്ന് നമുക്ക് ചില ആശയങ്ങൾ ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് മൈലിനേറ്റ് ചെയ്യാൻ പോകുന്ന സെല്ലുകൾ ലഭിക്കും അതിനാൽ ഇതെല്ലാം വരുന്നത് ഇൻ വിട്രോ ഡെവലപ്മെൻറ് ബയോളജിയിലെ വളരെ നിർണായകമായ ചില പഠനങ്ങളിലൂടെയാണ് അതിനാൽ ഏത് ഘട്ടത്തിലാണ് ഈ സെല്ലുകൾ ദൃശ്യമാകുകയെന്നും ഒരു ഇൻ വിട്രോ സജ്ജീകരണം വികസിപ്പിക്കുന്നതിന് ഡെവലൊപ്മെന്റൽ ബയോളജിയുടെ വിവരങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും നമ്മുക്കൊരു ധാരണയായിട്ടുണ്ട് അതിനാൽ ഇവയെല്ലാം പരസ്പരബന്ധിതമാണെന്ന് കരുതുന്നു അതിനാൽ സെൽ കൾച്ചറിൻറെ ഈ പ്രദേഷങ്ങളിലെല്ലാം പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള സെൽ കൽച്ചറുകളിൽ ഒരാൾ ഡെവലൊപ്മെന്റൽ പ്രേശ്നങ്ങളെ കുറിച് ബോധവാൻ അരിക്കണം അതല്ലെങ്കിൽ വളരെ ട്രിക്കി ആയിരിക്കും അതിനാൽ ഞാൻ പറയും എല്ലാ അടിസ്ഥാന സംഭവവികാസങ്ങളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണുതുറന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഷ്വാൻ സെല്ലുകൾ ആ പ്രായത്തിൽ നിന്ന് തന്നെ എടുക്കുവാൻ കഴിയുമാരുനെങ്കിൽ എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ വികസനം അങ്ങനെ ചെയ്യാൻ ഞങ്ങളെ അനുവദിചില്ല അതിനാൽ ഷ്വാൻ കോശങ്ങൾ ലഭിക്കാൻ മറ്റൊരു മൃഗത്തെയോ മറ്റൊരു ഗ്രൂപ്പ് മൃഗത്തെയോ ആശ്രയിക്കേണ്ടതായ് വന്നു അതിനാൽ ഷ്വാൻ സെല്ലുകളെ വേർതിരിചെടുക്കാനുള്ള നിങ്ങളുടെ രണ്ടാമത്തെ ഉറവിടമാണിത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക് ഇതുപോലെ ഒരു ഘടന ഉള്ള ഷ്വാൻ സെല്ലുകൾ ലഭിക്കും ഇപ്പോൾ ഷ്വാൻ സെല്ലുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം മനസിലാകാം അതായത് ഇവ വിഭജിക്കുന്ന സെല്ലുകളാണ് ഒരു തരം ഗ്ലിയാൽ സെല്ലുകൾ എന്നാൽ ന്യൂറോൻസുകൾ വിഭജിക്കുന്നവയല്ല ഇപ്പോൾ നിങ്ങൾ ഒരു വിഭജനമില്ലാത്ത സെല്ലിനെ വിഭജിക്കുന്ന സെല്ലുകളുടെ കൽച്ചറിൽ ഇടുകയാണെങ്കിൽ അതും വിഭജിക്കുന്ന സെല്ലുകളുടെ എണ്ണം വിഭജിക്കാത്ത സെല്ലുകളെക്കാൾ കൂടുതലായിത്തീരുകയും എന്ന് ഉറപ്പുവരുത്താതെ ആണെങ്കിൽ നിങ്ങൾക് ഈ പ്രേശ്നത്തെ കുറിച് പഠിക്കാനാവില്ല കാരണം വിഭജിക്കാത്ത സെല്ലുകളെ ഇവർക്കിടയിൽനിന്നും നിങ്ങൾക് കണ്ടെത്താൻ ആകില്ല അതിനാൽ ഈ പ്രേശ്നത്തെ എങ്ങനെ ലക്ഷ്യമാകാം ഈ പ്രേശ്നത്തെ ടാർജെറ്റ് ചെയ്യാൻ ഉള്ള ഒരു വഴി എന്നത് ഈ വിഭജിക്കാത്ത സെല്ലുകളെ കൽച്ചർ ചെയുക എന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രേശ്നത്തെ ടാർഗറ്റ് ചെയുന്നത് അതിനായി നിങ്ങൾക് ഇവിടെ ഒരു ഡിഷ് ഉണ്ട് അതിനാൽ നിങ്ങൾ ഈ പെരിഫറൽ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോണിക് ന്യൂറോണുകളെ ഒരു ഡിഷിൽ പ്ലേറ്റ് ചെയുക 24 മണിക്കൂറിനുള്ളിൽ അവർ ഇതുപോലുള്ള പ്രക്രിയകൾ അയയ്ക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക് കാണാൻ സാധിക്കും ശേഷം ഇതിൽ ഒരു പ്രെക്രിയ വലുതായി ആക്സോൺ ആയി തീരും ഇപ്പോൾ ഈ പ്രെക്രിയ നിങ്ങളുടെ മുൻപിലുണ്ട് ഇനി നിങ്ങൾക് ഇവയെ ഒരു ജ്യോമെട്രീ പിന്തുടരുന്ന രീതിയിൽ പാറ്റേൺ ചെയുവാൻ സാധിച്ചാൽ അത് വളരെ നന്നായിരിക്കും ഇപ്പോൾ 2 3 ദിവസത്തിനു ശേഷവും അവ വളരുന്നതിനാൽ ഷ്വാൻ സെല്ലുകളെ അവതരിപ്പിക്കാനുള്ള ശരിയായ സമയമാണിത് ഈ വിഭജിക്കാത്ത സെല്ലുകളെല്ലാം നിങ്ങൾ E14 ൽനിന്നുമാണ് എടുത്തത് അവയെല്ലാം ഇതുപോലുള്ള പ്രക്രിയകൾ ഉണ്ടാക്കുകയ്യും ഇപ്പോൾ നമ്മൾ ഷ്വാൻ സെല്ലുകൾ ഇവയിലേക്കു ചേർക്കുവാനുള്ള ഘട്ടത്തിൽ എത്തുകയും ചെയ്തു അതിനാൽ ഇവിടം കൊണ്ട് നിർത്തുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നും അതിനുശേഷം അഡൽറ്റ് ഹിപ്പോകാമ്പൽ ന്യൂറോണിലേക്ക് എങ്ങനെ ഇവയെ വിവർത്തനം ചെയ്യാമെന്നും ഒക്കെ ആയി ഈ കഥ തുടരുന്നതായിരിക്കും കാരണം അവിടെ കുഴപ്പമുണ്ടാക്കുന്ന ചില അദ്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ട്